ഈ മൊഡ്യൂളിൽ പൂർണ്ണ ഓട്ടോമേഷൻ ആദർശപരമായി അല്ലെങ്കിൽ വലിയ അളവിൽ മനുഷ്യ ഇടപെടൽ ഇല്ലാത്ത ഓട്ടോമേഷൻ ഇതിൽ മനുഷ്യ ഇടപെടൽ കുറയുന്നു മുഴുവൻ ഉൽപ്പന്ന നിരയും എന്നിവ തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ വിവിധ വശങ്ങൾ പോലെ നമ്മൾ ഇതുവരെ കടന്നുപോയ ഈ സാങ്കേതികവിദ്യകളുടെയെല്ലാം സഹായത്തോടെ അത് സാധ്യമാകും വ്യവസായ 4 0 ന്റെ ആവശ്യകതകൾ പാലിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യകൾ ഇവയാണ് നമുക്ക് ഇവയെല്ലാം സെൻസറുകൾ ആക്റ്റേറ്ററുകൾ ആശയവിനിമയം ഓട്ടോമേഷൻ സഹായത്തോടെയാണ് ഈ പ്രത്യേക പ്രഭാഷണത്തിലൂടെ നമ്മൾ കടന്നുപോകുന്നത് ഇൻഡസ്ട്രി 4 0 ന്റെ സൈബർ ഫിസിക്കലിന്റെ വിവിധ പ്രവർത്തനക്ഷമമായ ഘടകങ്ങളുണ്ട് എന്നതാണ് ആശയം അതിലൊന്നാണ് സൈബർ ഫിസിക്കൽ സിസ്റ്റംസ് അതുപോലെ വ്യാവസായിക 4 0 അടിസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ഈ മൊഡ്യൂളിന്റെ അടുത്ത കുറച്ച് പ്രഭാഷണങ്ങളിൽ പോകാൻ പോകുന്ന മറ്റ് പലതും ഉണ്ട് അപ്പോൾ എന്താണ് സൈബർ ഫിസിക്കൽ സിസ്റ്റം എന്താണ് ആശയക്കുഴപ്പമുള്ള വ്യത്യസ്ത അനുബന്ധ സാങ്കേതികവിദ്യകൾ എന്നിവ തമ്മിൽ ആശയക്കുഴപ്പത്തിലാകുന്നു എന്നാൽ സൈബർ ഫിസിക്കൽ സംവിധാനങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ള ഒന്നാണ് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ സൈബർ ഫിസിക്കൽ സൈബർ ലോകത്തിന്റെയും ഭൌതിക ലോകത്തിന്റെയും ശക്തമായ ഘടകം ഉള്ള സംവിധാനങ്ങളാണിവ ഭൌതിക ലോകത്തിന്റെ ശക്തമായ ഒരു ഘടകമുണ്ട് ഈ സംവിധാനങ്ങളിൽ സൈബർ ലോകവും ഭൌതിക ലോകവും തമ്മിൽ പരസ്പര ബന്ധമുണ്ട് അപ്പോൾ അത് എങ്ങനെ സാധ്യമാകും ഒരു സൈബർ ഫിസിക്കൽ സിസ്റ്റം എന്താണെന്നതിന്റെ NIST നിർവചനം നമുക്ക് നോക്കാം സൈബർ ഫിസിക്കൽ സിസ്റ്റം പലപ്പോഴും സ്മാർട്ട് സിസ്റ്റങ്ങൾ സംയോജിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഇന്റർനെക്റ്റ് നെറ്റ്വർക്കുകളാണ് ഭൌതിക ഘടകങ്ങളുടെയും കണക്കുകൂട്ടലിന്റെയും ഇടപെടൽ ശൃംഖലകൾ അതിനാൽ കണക്കുകൂട്ടൽ സൈബർ ഒന്നാണ് ശാരീരികമാണ് അടിസ്ഥാനപരമായി ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന ഭൌതിക ലോകം ഉണ്ട് ഈ സംവിധാനങ്ങൾ നമ്മുടെ നിർണായകമായ അടിസ്ഥാന സൌകര്യങ്ങളുടെ അടിസ്ഥാനം നൽകും വ്യത്യസ്ത അടിസ്ഥാന സൌകര്യങ്ങൾ പൊതു സ്വകാര്യ വ്യവസായ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല ഈ നിർണായകമായ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും ഉള്ള എല്ലാ പൊതു ഇൻഫ്രാസ്ട്രക്ചറുകളും അടുത്ത തലമുറ ഇൻറർനെറ്റായ ഇൻഡസ്ട്രി 4 0 ൽ ഈ സൈബർ ഫിസിക്കൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവ പിന്തുണയ്ക്കപ്പെടും ഈ നിർണായക ഘടനയുടെ സഹായത്തോടെ ഇവയെല്ലാം പിന്തുണയ്ക്കാൻ പോകുന്നു ഈ സൈബർ ഭൌതിക സംവിധാനങ്ങളുടെ സഹായത്തോടെ പിന്തുണയ്ക്കും ഈ സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങൾ എന്താണെന്ന് അടുത്ത കുറച്ച് സ്ലൈഡുകളിലൂടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ ഈ സുപ്രധാനമായ സൈബർ ഭൌതിക സംവിധാനങ്ങളുടെ സഹായത്തോടെ ജീവിതത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടും കാരണം ക്രമേണ നമ്മൾ മികച്ച ലോകത്തിലേക്ക് പ്രവേശിക്കും അവിടെ മികച്ച സേവനങ്ങൾ നൽകുന്ന മികച്ച സംവിധാനങ്ങൾ ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും സ്മാർട്ട്നെസ് അടിസ്ഥാനമാക്കിയുള്ള സ്വയംഭരണവും നിർദ്ദേശങ്ങളും വളരെ പ്രധാനമാണ് അതിനാൽ NIST അനുസരിച്ച് സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങളുടെ ഈ നിർവചനം അടിസ്ഥാനപരമായി പൂർത്തിയാക്കുന്നു ഇപ്പോൾ ഒരു സൈബർ ഫിസിക്കൽ സിസ്റ്റം എന്താണ് എന്നതാണ് ചോദ്യം എന്നാൽ അതിനുമുമ്പ് ഒരു എംബെഡെഡ് സിസ്റ്റംസ് എന്നിവ നിങ്ങൾക്ക് ഒരുമിച്ച് ലഭിക്കുന്നത് സൈബർ ഫിസിക്കൽ സിസ്റ്റമാണ് അപ്പോൾ എംബെഡെഡ് സിസ്റ്റംസ് എന്താണ് നിങ്ങൾക്ക് ഒരുതരം ഹാർഡ്വെയറിൽ പ്രവർത്തിക്കുന്ന ഒരുതരം സോഫ്റ്റ്വെയർ ഉണ്ട് സോഫ്റ്റ്വെയർ ഹാർഡ്വെയറിൽ ഉൾച്ചേർത്തിരിക്കുന്നു ഉഎംബെഡെഡ് സിസ്റ്റംസ് കാറുകളിൽ ധാരാളം കണ്ടെത്തിയിട്ടുണ്ട് അതായത് വാഹനങ്ങൾ എയർക്രാഫ്റ്റുകളിൽ എംബെഡെഡ് സിസ്റ്റംസ് എല്ലായിടത്തും കാണപ്പെടുന്നു ഇക്കാലത്ത് എംബെഡെഡ് സിസ്റ്റംസ് മികച്ചതാക്കാനുള്ള സാങ്കേതികവിദ്യകൾ പ്രാപ്തമാക്കുന്നു അതിനാലാണ് ഈ എംബെഡെഡ് സിസ്റ്റംസ് വളരെ ജനപ്രിയമായത് അതിനാൽ ഈ എംബെഡെഡ് സിസ്റ്റംസ് എവിടെ ഉപയോഗിച്ചാലും അവയ്ക്ക് കണക്കുകൂട്ടൽ ആശയവിനിമയം നിയന്ത്രണം കണക്കുകൂട്ടൽ ആശയവിനിമയം നിയന്ത്രണ കഴിവുകൾ എന്നിവയുടെ ചില കഴിവുകൾ ഉണ്ട് ഭൌതിക ലോകവുമായി ഇടപഴകുന്നിടത്ത് വ്യത്യസ്ത സെൻസറുകളിലൂടെയും ആക്യുവേറ്ററുകളിലൂടെയും ഉപകരണങ്ങളായിരിക്കും പല മെഡിക്കൽ ഉപകരണങ്ങളും അവയിൽ സിസ്റ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗതാഗത വാഹനങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾ അവയിൽ ഉൾച്ചേർത്തിരിക്കുന്നു ഉദാഹരണത്തിന് റഡാറും സംവിധാനങ്ങളും ഇവയെല്ലാം അവയിൽ ഉൾച്ചേർത്ത സംവിധാനങ്ങളുണ്ട് അതിനാൽ ഇതാണ് സൈബർ ഫിസിക്കൽ സിസ്റ്റം ഇപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി ഒരു എംബെഡെഡ് സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം എംബെഡെഡ് സിസ്റ്റത്തിന് കണക്കുകൂട്ടൽ ശേഷിയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവർക്ക് പ്രോസസ്സിംഗ് ഇടമാണ് ഇതാണ് ഭൌതിക ഇടം അവ തമ്മിലുള്ള ഇടപെടൽ അതിനെ സൈബർ ഫിസിക്കൽ സിസ്റ്റമാക്കി മാറ്റും അപ്പോൾ ഈ ഭൌതിക ഇടത്തിന് എന്താണ് ഉള്ളത് നമ്മൾ സാധാരണയായി സംസാരിക്കുന്നത് ഒരു ഭൌതിക ഇടമാണ് മനുഷ്യർ വീടുകൾ ഫാക്ടറികൾ വാഹനങ്ങൾ കെട്ടിടങ്ങൾ മുതലായവ പോലുള്ള വ്യത്യസ്ത വസ്തുക്കളെക്കുറിച്ചാണ് കൂടാതെ വ്യത്യസ്ത വസ്തുക്കൾ ഈ ആശയവിനിമയ വസ്തുക്കൾ ഉദാഹരണത്തിന് മറ്റ് ഗാർഹിക വസ്തുക്കൾ അല്ലെങ്കിൽ സെൽ ഫോൺ ക്യാമറകൾ വാഷിംഗ് മെഷീനുകൾ റഫ്രിജറേറ്ററുകൾ തുടങ്ങിയ വ്യവസായങ്ങളിൽ ഉള്ള വസ്തുക്കൾ പോലും ഇവയെല്ലാം വ്യത്യസ്ത വസ്തുക്കളാണ് ഇവ ഭൌതിക സ്ഥലത്ത് പ്രവർത്തിക്കുന്ന വ്യത്യസ്ത വസ്തുക്കളാണ് ഈ വസ്തുക്കൾ അടിസ്ഥാനപരമായി ചില ഡാറ്റ മനസ്സിലാക്കും അവർ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് തുടർന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലുള്ള ചില ആശയവിനിമയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വ്യത്യസ്ത വിവരങ്ങൾ അവർ മനസ്സിലാക്കും ഈ ഡാറ്റ കൂടുതൽ അയയ്ക്കാൻ പോകുന്നു ഈ സെൻസിംഗ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപയോഗിച്ചായിരിക്കും അതിനാൽ അത് സൈബർ ഇടമായി മാറുന്നു ഈ പ്രോസസ്സിംഗ് സൈബർ സ്പെയ്സിൽ ചെയ്യപ്പെടും ഈ പ്രോസസ്സിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി വ്യത്യസ്ത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഫലങ്ങൾ ഭൌതിക ഇടത്തിലേക്ക് തിരികെ അയയ്ക്കും അതിനാൽ ഈ ഉപകരണങ്ങൾ ഒരുപക്ഷേ ഒരു വാഷിംഗ് മെഷീൻ ആരംഭിക്കുക ഒരു റഫ്രിജറേറ്റർ ആരംഭിക്കുക ചില കാര്യങ്ങളുണ്ടെങ്കിൽ അത് സംഭവിച്ചേക്കാം മുറിയിലെ എയർകണ്ടീഷണറിൽ എയർ കണ്ടീഷനിംഗ് ആരംഭിക്കുന്നു നമുക്ക് പറയാം മുറിയിൽ താപനില താഴ്ന്നതായി മനസ്സിലായി ഇവിടെയുള്ള സെർവറുകളിൽ നടത്തുന്ന അവരുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി ആ സൈബർ ഇടങ്ങളിൽ മുൻകൂട്ടി പ്രോഗ്രാം ചെയ്തിട്ടുള്ള ചില നിയമങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കാം ഒടുവിൽ ആക്റ്റിവേഷൻ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും പ്രവർത്തിപ്പിക്കുക എന്ന ഉദ്ദേശ്യത്തോടെ ഭൌതിക ഇടം പ്രവർത്തിപ്പിക്കും ഞാൻ നിങ്ങൾക്ക് നൽകിയ ചില ഉദാഹരണങ്ങളാണ് ഇവ ഇത് കൂടുതൽ സാമാന്യവൽക്കരിക്കാനാകും പൊതുവേ ഒരു സൈബർ ഫിസിക്കൽ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം ഞാൻ കൂടുതൽ മുന്നോട്ട് പോകുന്നതിനുമുമ്പ് ഈ സൈബർ ഫിസിക്കൽ സിസ്റ്റം CPS എങ്ങനെ പ്രവർത്തിക്കും എന്നതിനെക്കുറിച്ച് അൽപ്പം ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം CPS എങ്ങനെ പ്രവർത്തിക്കും നിങ്ങൾ സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് സൈബർ ലോകം സൈബർ ലോകം ഭൌതിക ഇടം എന്നിവയുണ്ട് സംഭവിക്കാൻ പോകുന്നത് ഈ ഭൌതിക ഇടം ചില വിവരങ്ങൾ അയയ്ക്കാൻ പോകുന്നു എന്നതാണ് ഇത് സൈബർ സ്പേസിലേക്ക് ചില വിവരങ്ങൾ അയയ്ക്കാൻ പോകുന്നു തുടർന്ന് ഇവിടെ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു ചില തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില പ്രവർത്തനങ്ങൾ നടത്താൻ പോകുന്നു ഈ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി ചില ഉപകരണങ്ങളുടെ ഭൌതിക അവസ്ഥ ഒരു ഉപകരണത്തിന്റെ ഭൌതിക അവസ്ഥ എന്നിവ മാറ്റാൻ പോകുന്നു ഉപകരണങ്ങളിലേക്കും ഉപകരണങ്ങളിലേക്കും പ്രാഥമികമായി ഇടപെടൽ എന്നാൽ ഇത് മനുഷ്യർക്കുള്ള ഉപകരണമാകാം അല്ലെങ്കിൽ അത് മനുഷ്യനിൽ നിന്ന് മനുഷ്യനാകാം അതിനാൽ എല്ലാത്തരം ഇടപെടലുകളും സംഭവിക്കാൻ പോകുന്നു പക്ഷേ ഇത് അടിസ്ഥാനപരമായി ഈ ലൂപ്പിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന തരത്തിലുള്ള പ്രാബല്യത്തിൽ വരും മുക്ക് അടിസ്ഥാനപരമായി ഒരുതരം ലൂപ്പ് സെൻസർ തമ്മിലുള്ള ഒരുതരം ലൂപ്പ് ആണ് നിങ്ങൾക്ക് സെൻസിംഗ് ഉണ്ട് പകരം ഞാൻ അതിനെ സെൻസർ എന്ന് വിളിക്കട്ടെ നിങ്ങൾക്ക് സെൻസിംഗ് തുടർന്ന് കണക്കുകൂട്ടൽ തുടർന്ന് നിയന്ത്രണം എന്നിവയ്ക്കിടയിൽ ഒരു ലൂപ്പ് ഉണ്ട് സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങളിൽ ഇത്തരത്തിലുള്ള ലൂപ്പ് നിലനിൽക്കാൻ പോകുന്നു ഈ സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങളുടെ പ്രത്യേകത എന്താണെന്നും അവ പൊതുവെ ഉൾച്ചേർത്ത സിസ്റ്റങ്ങളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എംബെഡെഡ് സിസ്റ്റംസ്ൽ സംസാരിക്കുന്നത് ഉപകരണങ്ങളെക്കുറിച്ചാണ് ചില വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന ഉപകരണങ്ങളെക്കുറിച്ചാണ് ഈ വിവരങ്ങൾ അടിസ്ഥാനപരമായി ഈ ഉപകരണങ്ങളിൽ ഉൾച്ചേർത്തിരിക്കുന്നു അവ ഈ ഉപകരണങ്ങളിൽ സംഭരിച്ചിരിക്കുന്നു മറുവശത്ത് സൈബർ ഭൌതിക സംവിധാനങ്ങൾ ഇവ സമ്പൂർണ്ണ സംവിധാനങ്ങളാണ് അവിടെ ഭൌതിക ഘടകങ്ങളും സോഫ്റ്റ്വെയറും അതിനാൽ വ്യത്യസ്ത എംബെഡെഡ് സിസ്റ്റങ്ങളുടെ നെറ്റ്വർക്കിംഗ് സാധാരണയായി ഒരു സൈബർ ഫിസിക്കൽ സിസ്റ്റത്തിൽ നിലനിൽക്കും പരിമിതമായ എണ്ണം ജോലികൾ ചെയ്യുന്നതിന് എംബെഡെഡ് സിസ്റ്റങ്ങൾക്ക് പരിമിതമായ വിഭവങ്ങളുണ്ട് മറുവശത്ത് ഒരു സൈബർ ഫിസിക്കൽ സിസ്റ്റം റിസോഴ്സ് നിയന്ത്രിതമായിരിക്കില്ല അവിടെ നിങ്ങൾക്ക് ഒരേ സമയം നിരവധി വ്യത്യസ്ത ജോലികൾ ചെയ്യാൻ കഴിയും എംബെഡെഡ് സംവിധാനത്തിൽ പ്രധാന പ്രശ്നങ്ങൾ തത്സമയ പ്രതികരണവും വിശ്വാസ്യതയുമാണ് മറുവശത്ത് ഒരു സൈബർ ഫിസിക്കൽ സിസ്റ്റത്തിൽ ഇതിന് പുറമേ പ്രധാന പ്രശ്നങ്ങളും സമയവും ഒത്തുചേരലുമാണ് സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങളും എംബെഡെഡ് സിസ്റ്റങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പ്രാഥമിക വ്യത്യാസങ്ങൾ ഇവയാണ് സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങളുടെ ചില സവിശേഷതകൾ ഇതാ റിയാക്ടീവ് ഒരു ക്രമം ഉണ്ട് അത് ഈ സംവിധാനങ്ങൾ ഉചിതമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഒരേസമയം ഒന്നിലധികം പ്രക്രിയകൾ നടപ്പിലാക്കുന്നതിനുള്ള ഏകീകൃതതയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് ഈ പേര് പറയുന്നതുപോലെ കൺകറൻസി വളരെ പ്രധാനമാണ് ഈ പ്രക്രിയകൾ ഒരേസമയ പ്രക്രിയകൾ ചില പ്രതീക്ഷിച്ച ഫലങ്ങൾ നേടുന്നതിന് വിവരങ്ങൾ കൈമാറുകയും ഈ പ്രവർത്തനങ്ങൾ സമന്വയിപ്പിക്കുകയും അല്ലെങ്കിൽ അവയുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവയുടെ പ്രവർത്തനരീതിയിൽ സമന്വിതമോ അസമന്വിതമോ ആക്കുകുകയും ചെയ്യും സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങളുടെ മറ്റ് ചില സവിശേഷതകൾ ഞാൻ ഇതിനകം സംസാരിച്ച ഒരു ഫീഡ്ബാക്ക് കൺട്രോൾ ലൂപ്പ് ഉണ്ടെങ്കിൽ ലളിതമായ നിയന്ത്രണ സംവിധാനങ്ങൾ പ്രവർത്തിക്കില്ല അത് വ്യത്യസ്ത നിയന്ത്രണ സംവിധാനങ്ങളുടെ ഒരു ശൃംഖലയായിരിക്കും ഇത് ഒരു ഹൈബ്രിഡ് നിയന്ത്രണ സംവിധാനമായിരിക്കും ഇത് അടിസ്ഥാനപരമായി ചുമതല നേടാൻ സഹായിക്കും തത്സമയ കണക്കുകൂട്ടൽ നന്നായി മനസ്സിലാക്കുകയും സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങളിൽ വളരെ ആകർഷണീയമായ സുരക്ഷാ നിർണായക ആപ്ലിക്കേഷനുകളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങളുടെ വ്യത്യസ്ത പ്രയോഗങ്ങളുണ്ട് സൈബർ ഭൌതിക സംവിധാനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഹെൽത്ത് കെയർ വ്യത്യസ്ത മെഡിക്കൽ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉപയോഗിച്ച് വളരെ കൃത്യമായി അളക്കേണ്ടതുണ്ട് അതിനാൽ വ്യക്തമായും നിങ്ങൾ അൽപ്പം ആഴത്തിൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയുന്നതുപോലെ സൈബർ ഫിസിക്കൽ സംവിധാനങ്ങൾ ആരോഗ്യപരിപാലനത്തിന് വളരെ ആകർഷകമാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും റോബോട്ടിക് ശസ്ത്രക്രിയയുടെ ഉപയോഗത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കണം ഇവ സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങളുടെ ഉദാഹരണങ്ങളാണ് അവ സാധാരണയായി ശസ്ത്രക്രിയയിലോ ആരോഗ്യപരിപാലനത്തിലോ ഉപയോഗിക്കുന്നു അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ദ്രാവക പ്രവാഹത്തെക്കുറിച്ചാണ് അതിനാൽ ദ്രാവക പ്രവാഹത്തിന്റെ നിയന്ത്രണം രോഗിയിലേക്കുള്ള രക്തപ്രവാഹത്തിന്റെ നിയന്ത്രണം വൈദ്യ ആവശ്യങ്ങൾക്കായി ആവശ്യമുള്ളപ്പോൾ ആരെങ്കിലും ഒരു അസ്ഥി മജ്ജ മാറ്റിവയ്ക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രക്തപ്പകർച്ച സംഭവിച്ചേക്കാം സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങൾക്ക് ടാസ്കുകൾ കൃത്യമായി നിർവ്വഹിക്കുന്നതിനുള്ള ഉപയോഗം കണ്ടെത്താനാകും ഒരു മനുഷ്യശരീരമാണെങ്കിൽ സിസ്റ്റം തന്നെ ഒരു പരിധിവരെ കൃത്യത പാലിക്കും ഒരു മനുഷ്യൻ പ്രകടനം നടത്തുകയാണെങ്കിൽ അവർക്ക് അത് അത്ര കൃത്യമായി ചെയ്യാൻ കഴിയില്ല അങ്ങനെ സൈബർ ഭൌതിക സംവിധാനങ്ങൾ റോബോട്ടിക് സർജറി അല്ലെങ്കിൽ ഇമേജ് ഗൈഡഡ് സർജറി ഉപയോഗിച്ച് ലഭിക്കുന്ന ശസ്ത്രക്രിയയിലെ കൃത്യത കാരണം റോബോട്ടിക് ശസ്ത്രക്രിയ വളരെ ജനപ്രിയമാണെന്ന് നിങ്ങൾ ഇതിനകം കേട്ടിരിക്കാം ഇവ വളരെ കൃത്യവും അറിയാവുന്നതുമാണ് ഡോക്ടർമാർക്ക് ഈ ശസ്ത്രക്രിയ വളരെ കൃത്യമായി നടത്താൻ കഴിയും അതിനാൽ ആരോഗ്യ സംരക്ഷണത്തിൽ ഇത്തരത്തിലുള്ള സൈബർ ഫിസിക്കൽ സംവിധാനങ്ങൾ ഉപയോഗപ്രദമാകും എക്സോസ്കെലെറ്റൺസ് ഓർത്തോട്ടിക്സ് എന്റർടെയിൻമെന്റ് റോബോട്ടിക്സ് ചികിത്സാ റോബോട്ടിക്സ് ബ്രെയിൻ മെഷീൻ ഇന്റർഫേസുകൾ പ്രോസ്റ്റെറ്റിക്സ് അടിസ്ഥാനമാക്കിയുള്ളതാണ് സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങളുടെ അടുത്ത ആപ്ലിക്കേഷൻ ഡൊമെയ്നും അവയുടെ ഉപയോഗവും പൊതുവായ എയർക്രാഫ്റ്റുകളും ട്രാൻസ്പോർട്ടേഷൻ കാർ തുടങ്ങിയവയാണ് അതിനാൽ ഗതാഗതത്തിലെ ഈ എല്ലാ കാര്യങ്ങളും സൈബർ ഭൌതിക സംവിധാനങ്ങളുടെ സഹായത്തോടെ പരിഹരിക്കാനാകും വാഹനം അടിസ്ഥാനമാക്കിയുള്ള ഗതാഗത സൈബർ ഫിസിക്കൽ സംവിധാനങ്ങൾ സുരക്ഷയ്ക്കായി സാമീപ്യം കണ്ടെത്തൽ നിങ്ങൾ വാഹനങ്ങളിൽ കയറിയിരിക്കണം അവിടെ വാഹനം വാഹനത്തിന് വളരെ അടുത്താണെങ്കിൽ മുന്നിലുള്ള മറ്റൊരു വാഹനം അല്ലെങ്കിൽ പിന്നിൽ നിന്ന് മറ്റൊരു വാഹനം വന്നാൽ ആ പ്രത്യേക വാഹനത്തിന് അടുത്തായി വാഹനം മുന്നറിയിപ്പ് നൽകും അതിനാൽ ഇവയെല്ലാം വാഹനങ്ങളിൽ റോഡിലും മറ്റും പ്രവർത്തിക്കുന്ന സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങളുടെ ഉദാഹരണങ്ങളാണ് മറ്റ് ആപ്ലിക്കേഷൻ ഡൊമെയ്ൻ ഊർജ്ജ മേഖലയിൽ സ്മാർട്ട് ഗ്രിഡിൽ മുതലായ മറ്റ് ഉദാഹരണങ്ങളും ഉണ്ട് അതിനാൽ ഇവയെല്ലാം സ്മാർട്ട് ഗ്രിഡിനായുള്ള ഊർജ്ജ മേഖലയിലെ സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങളുടെ ഉദാഹരണങ്ങളാണ് വ്യവസായത്തിൽ പൊതുവേ നിർമ്മാണ വ്യവസായങ്ങൾ സൈബർ ഫിസിക്കൽ സംവിധാനങ്ങൾ ഉപയോഗിക്കും ഇവയിൽ ചിലതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ച ഈ വ്യത്യസ്ത യന്ത്രങ്ങളെല്ലാം റോബോട്ട് സഹായ യന്ത്രങ്ങളായിരിക്കാം ഇവയിൽ ചിലത് ലളിതമായ യന്ത്രങ്ങളാകാം അതിനാൽ ഒരു വർക്ക്ഷോപ്പിലെ ലേത്ത് മെഷീൻ എന്നിവ പോലുള്ള യന്ത്രങ്ങൾ നമുക്ക് പറയാം ഇവയെല്ലാം വ്യത്യസ്ത ഘടകങ്ങളുമായി സജ്ജീകരിക്കാം അവ ഉൽപാദനത്തിനും മികച്ച ഉൽപാദനത്തിനും വ്യത്യസ്ത സെൻസറുകളും ആക്യുവേറ്ററുകളും കൂടാതെ മറ്റ് മറ്റ് പ്രോസസ്സിംഗുകളും ഉപയോഗിച്ച് ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നു ഇവ മികച്ചതാക്കാൻ കഴിയും കൂടാതെ വ്യവസായത്തിലും നിർമ്മാണ വ്യവസായത്തിലും സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങളുടെ ഉദാഹരണങ്ങളും ഇവയാണ് ഈ മികച്ച സൈബർ ഫിസിക്കൽ ഫിസിക്കൽ മാനുഫാക്ചറിംഗ് സിസ്റ്റങ്ങൾക്ക് സ്മാർട്ട് കൺട്രോൾ ഒപ്റ്റിമൽ റിസോഴ്സ് യൂട്ടിലൈസേഷൻ സ്മാർട്ട് ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് മെയിന്റനൻസ് സുരക്ഷ വ്യാവസായിക പരിസ്ഥിതിയുടെ സുരക്ഷ ഈ മെഷീനുകളുടെ സുരക്ഷ ഈ മെഷീനുകളുടെ ആരോഗ്യത്തിന്റെ മികച്ച നിരീക്ഷണം എന്നിങ്ങനെ വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇവയെല്ലാം സൈബർ ഫിസിക്കൽ ആക്കിയ സൈബർ ഫിസിക്കൽ സംവിധാനങ്ങൾ അല്ലെങ്കിൽ മെഷീനുകൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയും നിർമ്മാണ വ്യവസായത്തിൽ ഉപയോഗിക്കുന്നതിനുള്ള സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങളുടെ ഉദാഹരണങ്ങളാണ് ഇവ അടിസ്ഥാനപരമായി നമ്മൾ ഇൻഡസ്ട്രി 4 0 നെക്കുറിച്ചാണ് സംസാരിക്കുന്നത് തുടക്കത്തിൽ സൈബർ ഫിസിക്കൽ സംവിധാനങ്ങൾ നിർമ്മാണ വ്യവസായത്തിലും മറ്റ് വ്യവസായങ്ങളിലും ഉപയോഗിക്കുന്നതിന് വളരെ ആകർഷകമാണെന്ന് ഞാൻ സൂചിപ്പിച്ചതായി കണ്ടു പൊതുവായ ഇൻഡസ്ട്രി 4 0 ന്റെ കാര്യത്തിൽ 5 സി ആർക്കിടെക്ചർ ഇവയാണ് 5C വാസ്തുവിദ്യാ വശങ്ങൾ കണക്ഷൻ എന്നത് സ്മാർട്ട് കണക്ഷനുകളെക്കുറിച്ചാണ് വ്യവസായത്തിലെ ഈ വ്യത്യസ്ത IoT ഉപകരണങ്ങളിൽ നിന്നും IIoT ഉപകരണങ്ങളിൽ നിന്നും കൃത്യമായ ഡാറ്റ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ എന്തുചെയ്യണം ഈ ഉപകരണങ്ങളിൽ നിന്നാണ് ഇവ ലഭിക്കുന്നത് ഇവിടെ രണ്ട് ഘടകങ്ങൾ പരിധികളില്ലാത്തതും ടെതർ രഹിതവുമായ ഡാറ്റയും ശരിയായ സ്പെസിഫിക്കേഷനുകളുള്ള സെൻസറുകളുടെ തിരഞ്ഞെടുപ്പും പരിഗണിക്കണം ഈ പരിവർത്തനത്തിലൂടെയാണ് നമ്മൾ സംസാരിക്കുന്നത് മെഷീൻ ഡാറ്റയെ ചില വിവരങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ അത് അർത്ഥവത്തായതും ഉപയോഗപ്രദവുമാക്കാം വിവിധ ഘടകങ്ങൾ മെഷീനുകളുടെ വിവിധ ഭാഗങ്ങൾ മൾട്ടി ഡൈമൻഷണൽ ഡാറ്റ ശേഖരണം ഡാറ്റ പരസ്പര ബന്ധ വിശകലനം എന്നിവയ്ക്കായുള്ള രോഗനിർണയത്തിനും ആരോഗ്യ നിരീക്ഷണത്തിനും ഡാറ്റ വിശകലന ഉപകരണങ്ങളും രീതികളും വികസിപ്പിക്കാൻ കഴിയും അടിസ്ഥാനപരമായി സംഭവിക്കുന്നത് ഈ യന്ത്രങ്ങൾ മികച്ചതാക്കും അവ സ്വയം അവബോധമുള്ളതാക്കും എന്നതാണ് അപ്പോൾ സൈബർ ഘടകം വരുന്നു ഇത് വളരെ വ്യക്തമാണ് വിവിധ ഹൈ എൻഡ് വർക്ക്സ്റ്റേഷനുകൾ സെർവറുകൾ ക്ലൌഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉൾപ്പെടുന്ന ഒരു ഹബ്ബിന് ലഭിക്കുന്ന വിവരങ്ങളുടെ വിശകലനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതിനാൽ അതാണ് നമ്മൾ സംസാരിക്കുന്ന സെർവർ ഘടകം ലഭിച്ച ഈ ഡാറ്റ ഡാറ്റ വിശകലനം ചെയ്യുന്നതിനും ഡാറ്റ ഖനനം ചെയ്യുന്നതിനും ഡാറ്റ സംഭരിക്കുന്നതിനും തുടർന്ന് ഡാറ്റയിൽ പ്രവർത്തിക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റ ഉപയോഗിക്കുന്ന ചില അൽഗോരിതം അടിസ്ഥാനമാക്കി ഉപയോഗിക്കാം അടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മറ്റുള്ളവരെ ബോധവാന്മാരാക്കുക അല്ലെങ്കിൽ ഒരേ സമയം ഉപയോഗപ്രദമായ വിവരങ്ങൾ നേടുക ഇത് അടിസ്ഥാനപരമായി ചെയ്യുന്നത് അതിന്റെ സൈബർ ഘടകമാണ് ഇത് ഒരു IIoT അല്ലെങ്കിൽ ഇൻഡസ്ട്രി 4 0 നുള്ള CPS ന്റെ വാസ്തുവിദ്യയിലെ 5C കളുടെ സി ആണ് കോഗ്നിഷൻ അതിനാൽ ഇവിടെ വിജ്ഞാനത്തിലൂടെ അർത്ഥമാക്കുന്നത് സിസ്റ്റത്തെക്കുറിച്ച് സമഗ്രമായ അറിവ് സൃഷ്ടിക്കുന്നതിനായി ഉപയോക്താക്കൾക്ക് ശരിയായ വിവരങ്ങൾ അവതരിപ്പിക്കുക എന്നതാണ് ഇവിടെ സംസാരിക്കുന്നത് സഹകരണ ഡയഗ്നോസ്റ്റിക്സ് മുൻഗണനയ്ക്കുള്ള തീരുമാനമെടുക്കൽ പ്രക്രിയകളുടെ ഒപ്റ്റിമൈസേഷൻ തുടങ്ങിയവയെക്കുറിച്ചാണ് അതിനാൽ ഇവയെല്ലാം സിപിഎസ് സിസ്റ്റങ്ങളിൽ ചിത്രത്തിലേക്ക് വരുന്ന അറിവിന്റെ വ്യത്യസ്ത വശങ്ങളാണ് മെഷീനുകൾ സ്വയം ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ നിർണ്ണയിക്കാൻ മേൽനോട്ട നിയന്ത്രണത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന മറ്റൊന്നാണ് കോൺഫിഗറേഷൻ ഉദാഹരണങ്ങളിൽ പുനരുജ്ജീവനത്തിനുള്ള സ്വയം ക്രമീകരണം വ്യതിയാനങ്ങൾക്കുള്ള സ്വയം ക്രമീകരണം വ്യത്യസ്ത അസ്വസ്ഥതകൾക്കുള്ള സ്വയം ഒപ്റ്റിമൈസേഷൻ എന്നിവ ഉൾപ്പെടുന്നു ഈ എല്ലാ സ്വത്തുക്കളും യന്ത്രങ്ങൾ തന്നെ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള മേൽനോട്ട നിയന്ത്രണത്തിൽ സഹായിക്കും ഈ യന്ത്രങ്ങൾ തൽഫലമായി സ്വയം പൊരുത്തപ്പെടാൻ പോകുന്നു സൈബർ ഫിസിക്കൽ സിസ്റ്റം വികസനത്തിന് വ്യത്യസ്ത വെല്ലുവിളികളുണ്ട് സുരക്ഷ സുരക്ഷ കരുത്ത് കണക്കുകൂട്ടൽ വെല്ലുവിളികൾ എന്നിവയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ തത്സമയം എംബെഡെഡ് സിസ്റ്റം അമൂർത്തീകരണ സംവേദനവും ചലനാത്മക വെല്ലുവിളികളും വാസ്തുവിദ്യയും മോഡലിംഗ് പരിശോധിച്ചുറപ്പിക്കൽ മൂല്യനിർണ്ണയവും സർട്ടിഫിക്കേഷനും കൂടാതെ ഈ സംവിധാനങ്ങളുടെ വിദ്യാഭ്യാസവും പരിശീലനവും ഉൾപ്പെടെയുള്ളവയാണ് ഇൻഡസ്ട്രി 4 0 നുള്ള പരാതികൾ പാലിക്കുന്നതിനായി വ്യവസായങ്ങളിൽ CPS വിന്യസിക്കുന്നതിനുള്ള വെല്ലുവിളികളാണ് ഇവയെല്ലാം അടുത്ത തലമുറ സെൻസറുകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത സമയത്ത് അത് ഉപയോഗിക്കാൻ പോകുന്നു ഇവയ്ക്ക് മുമ്പ് ആമുഖ മോഡ്യൂളിൽ സംസാരിച്ച ഈ സെൻസറുകളെല്ലാം ലളിതമായ സെൻസറുകളാണ് ഈ സെൻസറുകൾക്ക് മനസ്സിലാക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ അതിനാൽ ഇവ സ്മാർട്ട് സെൻസറുകൾ മറ്റും സെൻസറുകൾ ബുദ്ധിമാന്മാരാക്കാൻ അവർ പ്രവർത്തിക്കുന്നു ഈ സെൻസറുകൾ സ്മാർട്ട് സെൻസറുകൾ മനസ്സിലാക്കുകയും അയയ്ക്കുകയും ചെയ്യും എന്നാൽ ഇവ ബുദ്ധിമാനാക്കും കാരണം സെൻസറുകളിൽ തന്നെ ചില ജോലികൾ ചെയ്യുന്നതിന് ചില ചെറിയ അൽഗോരിതങ്ങൾ ഭാരം കുറഞ്ഞ അൽഗോരിതങ്ങൾ ഈ സെൻസറുകളിൽ നടപ്പിലാക്കും ഇവ ഇൻഡ്സ്ട്രി 4 0 ന്റെ പശ്ചാത്തലത്തിൽ ഇത് വളരെ പ്രധാനമാണ് അടിസ്ഥാനപരമായി നിങ്ങൾ സംസാരിക്കുന്നത് സെൻസറുകളുടെയും ആക്യുവേറ്ററുകളുടെയും സംയോജനത്തെക്കുറിച്ചാണ് ഒരു പ്രോസസ്സറും ആശയവിനിമയ മൊഡ്യൂളും ഇത് അടിസ്ഥാനപരമായി ഈ പരമ്പരാഗത സെൻസറുകളാണ് അവ എങ്ങനെ കാണപ്പെടുന്നു അതിനാൽ സെൻസർ ഘടകം ഓപ്ഷണലായി ഒരു ആക്റ്റിവേറ്റഡ് ഘടകവും നിശ്ചിത പ്രോസസ്സിംഗിനായി ഒരു പ്രോസസ്സറും ഉണ്ടാകും ഈ വ്യത്യസ്ത സെൻസറുകളെ പ്രോസസ്സിംഗിനായി ഒരു സെൻട്രൽ ഹബ് ചെലവ് മെച്ചപ്പെടുത്തൽ തുടങ്ങിയ ചില പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇവ സ്മാർട്ട് സെൻസറുകളുടെ വ്യത്യസ്ത സവിശേഷതകളിൽ ചിലതാണ് ഈ സ്മാർട്ട് സെൻസറുകൾക്ക് കടുത്ത പരിമിതികളുണ്ട് ചില ഇച്ഛാനുസൃത സാഹചര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത മുൻകൂട്ടി നിശ്ചയിച്ച ഉൾച്ചേർത്ത പ്രവർത്തനങ്ങൾ അവയ്ക്ക് ഉണ്ട് ചില ആവശ്യകതകളെ അടിസ്ഥാനമാക്കി നിങ്ങൾ അവ ഇഷ്ടാനുസൃതമാക്കേണ്ടതുണ്ട് അത് യഥാർത്ഥ ജീവിത വ്യവസായ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നത് ബുദ്ധിമുട്ടാക്കുന്നു ഇടുങ്ങിയ ആപ്ലിക്കേഷൻ സ്പെക്ട്രമാണ് സെൻസറുകൾ ഉപയോഗിച്ചുള്ള രണ്ടാമത്തെ പരിമിതി സെൻസർ ഡാറ്റ സമാഹരണം സാധ്യമല്ല അല്ലെങ്കിൽ പരിമിതമായി സാധ്യമല്ല കൂടാതെ ഈ സ്മാർട്ട് സെൻസറുകൾക്ക് സെൻസർ കാലിബ്രേഷനായി ബാഹ്യ പ്രോസസർ ആവശ്യമാണ് കൂടാതെ അവ വളരെ അടിസ്ഥാന ഭാരം കുറഞ്ഞ ആശയവിനിമയ പ്രോട്ടോക്കോളുകളെ പിന്തുണയ്ക്കും സ്മാർട്ട് സെൻസറുകളുടെ ഈ വ്യത്യസ്ത പരിമിതികളെല്ലാം മറികടക്കാൻ അടുത്ത തലമുറ ബുദ്ധിപരമായ സെൻസറുകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അവ പ്രവർത്തിക്കുന്നു ഈ ബുദ്ധിമാനായ സെൻസറുകളുടെ വ്യത്യസ്ത സവിശേഷതകളാണ് ഇവ ഈ ബുദ്ധിമാനായ സെൻസറുകൾക്ക് സംവേദനാത്മക ഡാറ്റ പ്രോസസ്സ് ചെയ്യാനും ഡാറ്റ പ്രോസസ്സ് ചെയ്തുകൊണ്ട് മുൻകൂട്ടി നിർവചിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താനും കഴിയും അങ്ങനെ ചെയ്യാൻ കഴിയാത്ത സ്മാർട്ട് സെൻസറുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈച്ചയിൽ ഉൾച്ചേർത്ത അൽഗോരിതങ്ങൾ ഇഷ്ടാനുസൃതമാക്കാൻ അവർക്ക് കഴിയും ബാഹ്യ സെൻസറുകളും ഉപകരണങ്ങളും കൈകാര്യം ചെയ്യാനും നിയന്ത്രിക്കാനും അവർക്ക് കഴിവുണ്ട് അവയിൽ ഒരു സെൻസർ ഒരു മൈക്രോകൺട്രോളർ യൂണിറ്റ് ഫ്ലാഷ് റാം റോം വ്യത്യസ്ത സെൻസർ ആപ്ലിക്കേഷനുകൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നിവ ഉൾപ്പെടുന്നു അതിനാൽ വ്യക്തമായും ഈ ബുദ്ധിമാനായ സെൻസറുകളുടെ വ്യത്യസ്ത ഗുണങ്ങൾ കുറഞ്ഞ ഡാറ്റ ആശയവിനിമയം കുറഞ്ഞ വൈദ്യുതി ഉപഭോഗം കുറഞ്ഞ സോഫ്റ്റ്വെയർ വികസന സമയം സെൻസറുകളുടെ മെച്ചപ്പെട്ട അനുയോജ്യത തുടർച്ചയായ കാലിബ്രേഷൻ സാധ്യത സെൻസറുകളുടെ നിരീക്ഷണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഈ ബുദ്ധിമാനായ സെൻസറുകളുടെ വ്യത്യസ്ത ഗുണങ്ങൾ ഇവയാണ് അതുകൊണ്ടാണ് ഇവ വളരെ ആകർഷകമാകുന്നത് ഒരു സ്മാർട്ട് സെൻസർ കാണപ്പെടുന്നത് ഇങ്ങനെയാണ് ഇത് അതിന്റെ ഉദാഹരണമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ ഒരു ഡിജിറ്റൽ ഇന്റർഫേസ് എന്നിവ യഥാർത്ഥത്തിൽ മെറ്റീരിയൽ പരിസരം അല്ലെങ്കിൽ എന്തും അനുഭവപ്പെടുന്നു അനുഭവിക്കേണ്ടതാണ് ഇന്റലിജന്റ് സെൻസറിലെ ഈ കാര്യങ്ങൾക്കെല്ലാം പുറമേ സ്മാർട്ട് സെൻസറുകളിൽ ഉള്ളതെല്ലാം നിങ്ങൾക്ക് ഉണ്ട് എന്നാൽ പ്രോസസ്സിംഗിനും കണക്കുകൂട്ടലിനും ഒരു ഘടകമുണ്ട് നിങ്ങൾക്ക് ഈ റാം റോം മൈക്രോകൺട്രോളർ ഫ്ലാഷ് തുടങ്ങിയവയുണ്ട് ഇവയെല്ലാം അടിസ്ഥാനപരമായി ഈ സ്മാർട്ട് സെൻസറുകളെ ബുദ്ധിമാനാക്കുന്നു അവയിൽ ഈ ഘടകങ്ങൾ ഉള്ളതിനാൽ അടുത്ത തലമുറ സെൻസറുകളുടെ ഈ ബുദ്ധിമാനായ സെൻസറുകളുടെ വ്യത്യസ്ത പ്രയോഗങ്ങളുണ്ട് ഫാക്ടറികളിലെ ഓട്ടോമാറ്റിക് അസംബ്ലി സ്മാർട്ട് ഫാബ്രിക് ഇന്റലിജന്റ് ടെക്സ്റ്റൈൽസ് നൂതന ഡ്രൈവിംഗ് അസിസ്റ്റന്റ് സിസ്റ്റങ്ങൾ മെഷീൻ ഇന്റലിജൻസ് ഉപയോഗിച്ച് തെറ്റ് കണ്ടെത്തലും പ്രവചനവും നോൺ ആക്രമണാത്മക ബയോമെക്കാനിക്കൽ വിശകലനം കെമിക്കൽ ഘടക വിശകലനം റിസോഴ്സ് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് ഈ അടുത്ത തലമുറയുടെ ബുദ്ധിപരമായ സെൻസറുകളുടെ ഈ വ്യത്യസ്ത പ്രയോഗങ്ങളിൽ ചിലത് ഇവയാണ് ഈ ബുദ്ധിമാനായ അടുത്ത തലമുറ സെൻസറുകളുടെ നിർമ്മാണത്തിൽ വ്യത്യസ്ത ഡിസൈൻ വെല്ലുവിളികൾ ഉണ്ട് വ്യത്യസ്ത ഹാർഡ്വെയർ പ്രശ്നങ്ങളുണ്ട് ഈ സെൻസർ നോഡുകൾ അവ ഇതിനകം തന്നെ വൈദ്യുതിയുടെ കാര്യത്തിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു അവയ്ക്ക് ഉയർന്ന പ്രതികരണ സമയമുണ്ട് സമന്വയ പ്രശ്നങ്ങൾ പ്രവർത്തന പരിമിതമായ ബാൻഡ്വിഡ്ത്ത് പ്രശ്നങ്ങൾ സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവയുണ്ട് കൂടാതെ മറ്റ് വ്യത്യസ്ത സോഫ്റ്റ്വെയർ പ്രശ്നങ്ങളും ഉണ്ട് വ്യത്യസ്ത ആപ്ലിക്കേഷനുകളും അവയുടെ വ്യത്യസ്ത പ്രോസസ്സറുകളും പാലിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ വിഭജനം ഇവയെല്ലാം ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ഡിസൈൻ വെല്ലുവിളികളാണ് സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങളുടെയും അടുത്ത തലമുറയിലെ ഇന്റലിജന്റ് സെൻസറുകളുടെയും അവയിലെ ചർച്ചകളുടെയും അവസാനത്തോടെ നിര്ത്തുന്നു സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങളെക്കുറിച്ചും ഇന്റലിജന്റ് സെൻസറുകളുടെ ഉപയോഗത്തെക്കുറിച്ചും ഈ ഹ്രസ്വമായ ആശയം അടിസ്ഥാനപരമായി വരും വർഷങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെക്കുറിച്ച് ഒരു ധാരണ നൽകുന്നു സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങളും ഐഐഒടിയും ശക്തമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ സൈബർ ഭൌതിക സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് വ്യത്യസ്ത വസ്തുക്കളുടെ രൂപത്തിൽ ഈ സൈബർ ഭൌതിക സംവിധാനങ്ങളുടെ സംഗ്രഹങ്ങൾ വസ്തുക്കൾ എന്നാൽ നമ്മൾ സംസാരിക്കുന്നത് ഭൌതിക വസ്തുക്കളെയല്ല വെർച്വൽ വസ്തുക്കളെക്കുറിച്ചാണ് ഭൌതിക ലോകത്തിലെ അനുബന്ധ ഭൌതിക വസ്തുക്കളുടെ ഈ വ്യത്യസ്തമായ ഭൌതിക അല്ലെങ്കിൽ വെർച്വൽ സന്ദർഭങ്ങൾ ഇവയെല്ലാം ഒരുമിച്ച് നെറ്റ്വർക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ പ്രോസസ്സിംഗ് വിശകലനത്തിനായി മറ്റേ അറ്റത്ത് ഡാറ്റ സ്വീകരിക്കുകയും വ്യവസായത്തെ മികച്ചതാക്കുകയും ചെയ്യും കാര്യങ്ങളുടെ വ്യാവസായിക ഇന്റർനെറ്റ് നിർമ്മിക്കുന്നതിലേക്കും സിപിഎസ് ഉപയോഗിച്ച് ഐഐഒടിയുടെ വ്യാവസായിക ഇന്റർനെറ്റിലേക്കും കുതിക്കുന്നു പിന്നീട് കൂടുതൽ വിശദമായി സംസാരിക്കാൻ പോകുന്നു ഇവ ഈ റഫറൻസുകളിൽ ചിലതാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ കൂടുതൽ വിശദമായി ഈ റഫറൻസുകളിലൂടെ പോകാം സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങളുടെ വ്യത്യസ്തമായ മറ്റ് പ്രശ്നങ്ങളും അടുത്ത തലമുറ സെൻസറുകൾ എങ്ങനെ വികസിപ്പിക്കാമെന്നും അറിയാൻ ഈ ആശയങ്ങൾ ആവശ്യമാണെന്ന് അറിയുന്ന ഇവ വ്യത്യസ്ത ആശയങ്ങളാണ് എന്നാൽ നിങ്ങൾ സ്വയം ഒരു സൈബർ ഫിസിക്കൽ സിസ്റ്റം വികസിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ അടുത്ത തലമുറ സെൻസർ ബുദ്ധിപരമായ സെൻസർ വികസിപ്പിക്കണമെങ്കിൽ അത് തികച്ചും വ്യത്യസ്തമായ ഒരു ബോൾ ഗെയിമാണ് നിങ്ങൾ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കണം ഒരു സെൻസറും ബുദ്ധിശക്തിയുള്ള സെൻസറുകളും നിർമ്മിക്കാൻ ഒരുമിച്ച് വർഷങ്ങൾ ചെലവഴിക്കുന്ന ഗവേഷകരുണ്ട് ഈ ബുദ്ധിമാനായ സെൻസറുകൾ നിർമ്മിക്കാൻ കൂടുതൽ പരിശ്രമിക്കേണ്ടിവരും ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു ബോൾ ഗെയിമാണ് എന്നാൽ ഇവിടെ നമുക്ക് ഈ വ്യത്യസ്ത ആശയങ്ങളായ സിപിഎസ് അടുത്ത തലമുറ സെൻസറുകൾ എന്നിവ ലഭിക്കുന്നു അതിനാൽ ഇൻഡ്സ്ട്രി 4 0 നിർമ്മിക്കുന്നതിന് ഇത് ആവശ്യമാണ്